ഇവിടെ ഈ ബക്ക് കൺവെർട്ടറിലേക്ക് നോക്കുമ്പോൾ Vin വശത്ത് നിന്ന് Vo വശത്തേക്ക് ഊർജ്ജം ഒഴുകുന്നത് നമുക്ക് കാണാം Vin വശമാണ് ഉയർന്ന വോൾട്ടേജ് വശം Vo വശം കുറഞ്ഞ വോൾട്ടേജ് വശമാണ് ഇപ്പോൾ നമ്മൾ Vo വശത്ത്നിന്ന് Vin വശത്തേക്ക് വിപരീതമായി നോക്കുകയാണെങ്കിൽ പ്രവർത്തനം ഒരു ബൂസ്റ്റ് ആക്ഷൻ പോലെ കാണപ്പെടും അത്തരമൊരു കൺവെർട്ടർ ഒരു ബൂസ്റ്റ് കൺവെർട്ടർ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ആ വീക്ഷണകോണിൽ സർക്യൂട്ട് വീണ്ടും വരച്ച് ഒരു ബൂസ്റ്റ് കൺവെർട്ടർ എങ്ങനെ വരുന്നു എന്ന് നോക്കാം ഇതിൽ ഇൻപുട്ട് സപ്ലൈ അടങ്ങിയിരിക്കുന്നു അവിടെ മാറ്റമൊന്നുമില്ല നമുക്ക് ഒരു ഔട്ട്പുട്ട് ലോഡ് ഉണ്ടായിരിക്കണം അവിടെ മാറ്റമൊന്നുമില്ല പ്രധാന മാറ്റം ഇവിടെ ഇൻഡക്ടറും സ്വിച്ച് കോമ്പിനേഷനുമാണ് ബക്ക് കൺവെർട്ടറിന്റെ കാര്യത്തിൽ ഇൻഡക്റ്റർ ഔട്ട്പുട്ട് വശത്തും ത്രോയും ധ്രുവവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇൻഡക്റ്റർ ഇൻപുട്ട് വശത്തുമാണ് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ കാര്യത്തിൽ ബക്ക് കൺവെർട്ടർ ഔട്ട്പുട്ട് വശത്ത് നിന്ന് ബക്ക് കൺവെർട്ടർ ഇൻപുട്ട് വശത്തേക്ക് ഈ ദിശയിൽ നമ്മൾ കാണുന്നതുപോലെയാണ് നമുക്ക് ഇൻപുട്ട് വശത്തേക്ക് ഇൻഡക്ടറും ഔട്ട്പുട്ട് വശത്ത് ത്രോകളും ഉണ്ട് തീർച്ചയായും ഔട്ട്പുട്ട് വോൾട്ടേജ് ഫിൽട്ടർ ചെയ്യേണ്ടതിനാൽ നമുക്ക് സാധാരണ പോലെ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട് ഇപ്പോൾ ഇവയാണ് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ പ്രധാന ഘടകങ്ങൾ ഇപ്പോൾ നമുക്ക് അവയെ പരസ്പരം ബന്ധിപ്പിക്കാം തുടർന്ന് അത് കൺവെർട്ടറുമായി താരതമ്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം സർക്യൂട്ട് കണക്ഷനുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു ഇത് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ സർക്യൂട്ട് ആണെന്ന് നിങ്ങൾ കാണുന്നു ഇൻഡക്റ്റൻസ് ഇൻപുട്ട് വശത്ത് Vin ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റൊരു വശം ധ്രുവവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ സ്വിച്ചിന്റെ രണ്ട് ത്രോകൾ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു ത്രോ 1 ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു 2 ത്രോ ഔട്ട്പുട്ട് കപ്പാസിറ്ററിലേക്കും ലോഡിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതൊരു ബൂസ്റ്റ് കൺവെർട്ടർ ആണ് ഓപ്പറേഷൻ വളരെ ഋജുവായതാണ് പോൾ T1 ലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ ഇൻഡക്റ്റർ ചാർജ്ജ് ചെയ്യുന്നു അമ്പടയാളം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പാതയിൽ കറന്റ് ഒഴുകുന്നു ഇൻഡക്ടറിനെ ചാർജ് ചെയ്യുന്നു കാന്തികമായി ധ്രുവം 0 പൊട്ടൻഷ്യലിലാണ് അപ്പോൾ പോൾ T2 ലേക്ക് മാറുമ്പോൾ ഇൻഡക്റ്റർ കറന്റ് 0 ലേക്ക് പോകാൻ കഴിയില്ല അതിനാൽ അത് പോൾ T2 ലൂടെ പോകണം തുടർന്ന് ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും ലോഡും തിരികെ ഒഴുകും അതിനാൽ ഇൻഡക്റ്റർ കാന്തിക ഊർജ്ജത്തെ ഔട്ട്പുട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യും ഈ രീതിയിൽ ഇത് L ന്റെ ഗുണത്താൽ ഔട്ട്പുട്ട് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട് പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കും ഇത് T2 പാതയിലൂടെ കറന്റ് ഔട്ട്പുട്ടിലേക്ക് പമ്പ് ചെയ്യാൻ നിർബന്ധിതമാക്കും അതിനാൽ ബൂസ്റ്റ് കൺവെർട്ടർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് പിന്നീട് ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം കണ്ടെത്താൻ നമ്മൾ ഇൻഡക്ടറിലുടനീളം വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉപയോഗിക്കും ഇൻഡക്ടർ എല്ലായ്പ്പോഴും ധ്രുവവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിരീക്ഷിക്കുക ഇവിടെ ബൂസ്റ്റ് കൺവെർട്ടറിലും ഇവിടെ ബക്ക് കൺവെർട്ടറിലും ഇൻഡക്ടർ ധ്രുവവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കാരണം ഇൻഡക്ടർ കറന്റ് പെട്ടെന്ന് മാറാൻ കഴിയില്ല കറന്റ് പെട്ടെന്ന് മാറുകയും വലിയ വോൾട്ടേജ് സ്വിച്ച് എലമെന്റ്ലോ കപ്പാസിറ്റർ എലമെന്റ്ലോ അടിച്ചേൽപ്പിക്കുകയും എന്തെങ്കിലും ആഘാതം ഉണ്ടാവുകയും ചെയ്താൽ ഇപ്പോൾ L ഇൻഡക്ടറിൽ വളരെ വലിയ വോൾട്ടേജിന് കാരണമാകും അതിനാൽ ഇൻഡക്റ്റർ കറന്റ് തുടർച്ചയായി നിലനിർത്തേണ്ടതുണ്ട് നിങ്ങൾ അത് ഇവിടെയോ ഏതെങ്കിലും ത്രോകളിലോ ഈ കൺവെർട്ടറിലോ വെച്ചാൽ ത്രോ കറന്റ് തകരും സ്വിച്ചുകൾ ഒരുത്രോ യിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറും അതിനാൽ T1 ത്രോ R അല്ലെങ്കിൽ T2 ത്രോ R ലും വെച്ചാൽ ഇൻഡക്റ്റർ കറന്റ് തകരും അതിനാൽ അതിനെ ധ്രുവത്തിനൊപ്പം ഒരു ശ്രേണിയിൽ സ്ഥാപിക്കുക എന്നതാണ് ഏക മാർഗം കാരണം ധ്രുവം എല്ലായ്പ്പോഴും T1 അല്ലെങ്കിൽ T2 ന്റെ ഒരു കറന്റ് കാണും അതിനാൽ ഈ പ്രൈമറി കൺവെർട്ടറുകളിൽ ഇൻഡക്റ്റർ ധ്രുവത്തിനൊപ്പം ശ്രേണിയിൽ സ്ഥാപിക്കേണ്ടത് എല്ലായ്പ്പോഴും ആവശ്യമാണ് അതിനാൽ ബക്ക് കൺവെർട്ടറിൽ ഇൻഡക്ടറും പോളും ഔട്ട്പുട്ട് വശത്തേക്ക് സ്ഥാപിക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ കണ്ടു ഇവിടെ ഇൻഡക്ടർ ഇൻപുട്ട് വശത്തേക്ക് സ്ഥാപിക്കുന്നു അവിടെ പോൾ ഇൻപുട്ട് വശത്താണ് ഇപ്പോൾ നമുക്ക് അത്തരമൊരു സാധ്യമായ മറ്റൊരു സ്ഥാനം കൂടിയുണ്ട് അതിനിടയിൽ പോൾ ഉണ്ടായിരിക്കാം അതിനിടയിൽ പോൾ ഉള്ള സ്ഥലത്ത് ഈ വശത്ത് ഇൻപുട്ടും ഈ വശത്ത് ഔട്ട്പുട്ടും ഉണ്ട് ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം ഇത് ഒരു ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന് കാരണമാകും നമ്മൾ ഇപ്പോഴും ബക്ക് കൺവെർട്ടറിനെ ഒരു റഫറൻസായി സൂക്ഷിച്ചു നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുന്ന ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന് ഇൻപുട്ട് DC വോൾട്ടേജും ഔട്ട്പുട്ട് ലോഡും ഉണ്ടായിരിക്കും കൂടാതെ ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും തീർച്ചയായും ഇൻഡക്റ്ററും ഇതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചിന്റെ പോളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇവ വീണ്ടും ബൂസ്റ്റ് കൺവെർട്ടറിന്റെ പ്രാഥമിക ഘടകങ്ങളായി മാറും നമുക്ക് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഇൻഡക്ടറും കപ്പാസിറ്റൻസും ഉണ്ട് അവ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഈ വശം ഔട്ട്പുട്ടിലേക്ക് ഈ വശം ഇൻപുട്ടിലേക്ക് ഇനി നമുക്ക് കണക്ഷൻ ഉണ്ടാക്കാം കണക്ഷൻ പൂർത്തിയാക്കിയ ശേഷം സർക്യൂട്ട് ഇതുപോലെ കാണപ്പെടുന്നു ഇതാണ് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ നമുക്ക് ഇതിന് പേരിടാം വിവിധ ഭാഗങ്ങൾക്കും ഇവിടെ പേര് നൽകിയിരിക്കുന്നു ഇതാണ് Vin ഇതാണ് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ T1 Vin ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു T2 ഔട്ട്പുട്ട് വശത്തേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ഇൻഡക്ടർ L ആണ് കപ്പാസിറ്റർ C ഇതുപോലെ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ പ്രവർത്തനവും വളരെ ലളിതമാണ് ഇപ്പോൾ പറയട്ടെ ധ്രുവം T1 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ Vin ധ്രുവത്തിലൂടെ L ലേക്ക് ബന്ധിപ്പിച്ച് ഇൻഡക്റ്റൻസ് കാന്തികമായി ചാർജ് ചെയ്യുന്നു തുടർന്ന് പോൾ T2 ലേക്ക് ബന്ധിപ്പിച്ച് ഇൻഡക്ടറിലെ കറന്റ് ഈ ദിശയിലേക്ക് പോകുമ്പോൾ താഴേക്ക് പോകുന്ന പാത മാറില്ല കൂടാതെ L ൽ അതേ ദിശയിൽ കറന്റ് ഒഴുക്ക് തുടരുന്നതിന് ഈ ദിശയിൽ തന്നെ അത് പിന്തുടരേണ്ടതുണ്ട് അതിനാൽ ഇൻഡക്റ്റർ ഈ കപ്പാസിറ്റൻസ് വരെ കപ്പാസിറ്ററിലൂടെയും ലോഡിലൂടെയും ചാർജ് ചെയ്യുകയും തുടർന്ന് T2 ൽ നിന്ന് P ലേക്ക് ഒഴുകുകയും ചെയ്യും അതിനാൽ അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ കപ്പാസിറ്റർ ഈ വശത്ത് പോസിറ്റീവ് ആയിരിക്കും ഇത് പോസിറ്റീവ് ആയിരിക്കും അതിനാൽ കപ്പാസിറ്ററിനെ ഇതുപോലെ വിപരീതമായി ഈ പോസിറ്റീവ് വശവുമായി ബന്ധിപ്പിക്കുന്നതാണ് നല്ലത് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ കാര്യത്തിൽ ഔട്ട്പുട്ട് വിപരീതമായിരിക്കും ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിരിക്കും ഇൻപുട്ട് നെഗറ്റീവ് ആണ് ഔട്ട്പുട്ട് പോസിറ്റീവ് ആയിരിക്കും അതിനാൽ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ പ്രവർത്തിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധവും ഇൻഡക്ടറിലുടനീളം വോൾട്ട് സെക്കൻഡ് ബാലൻസ് ഉപയോഗിച്ച് അതേ രീതിയിൽ ലഭിക്കും ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം എങ്ങനെ നേടാമെന്നും നമ്മൾ ഉടൻ പരിശോധിക്കും ഇനി നമ്മൾ തിരിച്ചറിയേണ്ട അടുത്ത പ്രധാന കാര്യം എന്താണ് ഈ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പ്രതീകാത്മക സ്വിച്ചാണ് എന്നാൽ ഇത് പുതിയ ഘടകങ്ങളുടെ നിര ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ പവർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ രണ്ട് പവർ അർദ്ധചാലക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു ഇനി ഇതൊരു BJT ആണ് ഈ BJT ഒരു നിയന്ത്രിത സ്വിച്ചാണ് അതുപോലെ ഒരാൾക്ക് BJT ക്ക് പകരം ഒരു IGBT അല്ലെങ്കിൽ MOSFET നിയന്ത്രിത സ്വിച്ചുകൾ ഉപയോഗിക്കാം അതിനായി ഏതെങ്കിലും നിയന്ത്രിത സ്വിച്ച് പ്രവർത്തിക്കുമെന്നതിൽ ഒരു പ്രശ്നവുമില്ല മറ്റൊരു ഉപകരണം ഒരു ഡയോഡാണ് ഇപ്പോൾ ഈ രണ്ട് ഉപകരണങ്ങളും ഈ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് നിർമ്മിക്കാൻ ഉപയോഗിക്കാം അതിനാൽ നമുക്ക് BJT ഈ രീതിയിൽ സ്ഥാപിക്കാം ത്രോ T1 മായി സീരീസിൽ പിന്നെ ഡയോഡ് T2 വഴിയും വരാം ഇപ്പോൾ നമുക്ക് ഈ സ്വിച്ച് നീക്കംചെയ്ത് കണക്ഷനുകൾ വീണ്ടും വരയ്ക്കാം ഇതാണ് ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് ഒരു പ്രായോഗിക ബക്ക് കൺവെർട്ടർ സർക്യൂട്ട് ഇതാണ് Vin പോസിറ്റീവ് BJTയുടെ കളക്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു BJTയുടെ എമിറ്റർ ധ്രുവത്തിലേക്ക് പോകുന്നു ഡയോഡിന്റെ കാഥോഡ് ധ്രുവവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ രീതിയിൽ ഡയോഡ് കണക്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം ഈ സ്വിച്ച് ഓണായിരിക്കുമ്പോൾ നിങ്ങൾ BJT ഓണാക്കാൻ ഈ ബേസ് ഡ്രൈവ് ഉപയോഗിക്കും ഇത് ഓൺ ആയിരിക്കുമ്പോൾ ഇപ്പോൾ കറന്റ് ഇതുപോലെ ഒഴുകുന്നു ഡയോഡ് വിപരീത പക്ഷപാതത്തിലായിരിക്കും ഇത് ഓഫാണ് കറൻറ് ഇൻഡക്ടറിലൂടെ ഒഴുകുന്നു ഇൻഡക്ടറിനെ ചാർജ് ചെയ്യുന്നു ഈ രീതിയിൽ ഒഴുകുന്നു ഈ BJT സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇൻഡക്ടറിലെ കറന്റ് തകർക്കാൻ കഴിയില്ല അതിനാൽ ഇത് ഈ ഡയോഡിലൂടെ ഫ്രീ വീലിംഗ് പാതയിൽ ഒഴുകുന്നു അതിനാൽ ഈ രീതിയിൽ ത്രോ 1 ഉം ത്രോ 2 ഉം ഈ പവർ അർദ്ധചാലക ഉപകരണ ജോഡി ഉപയോഗിച്ച് അനുകരിക്കപ്പെടുന്നു ഈ BJT ഒരു MOSFET അല്ലെങ്കിൽ IGBT അല്ലെങ്കിൽ ഏതെങ്കിലും നിയന്ത്രിത പവർ അർദ്ധചാലക സ്വിച്ച് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാമെന്ന് ഓർമ്മിക്കുക അതിനാൽ ബൂസ്റ്റ് കൺവെർട്ടർ സർക്യൂട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു ബൂസ്റ്റ് കൺവെർട്ടർ രണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് പവർ അർദ്ധചാലക സ്വിച്ചുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ത്രോ T1 ൽ നമ്മൾ നിയന്ത്രിത പവർ അർദ്ധചാലക ഉപകരണം BJT അല്ലെങ്കിൽ ഒരു MOSFET അല്ലെങ്കിൽ ഒരു IGBT ഇടും ഒപ്പം ത്രോ 2 നൊപ്പം നമ്മൾ ഡയോഡ് ഇടും നമുക്ക് ഇപ്പോൾ ഈ സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് നീക്കം ചെയ്ത് സർക്യൂട്ട് വീണ്ടും ബന്ധിപ്പിക്കാം BJT ഇതുപോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു പോൾ എൻഡ് കളക്ടറാണ് തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ ബേസ് ഡ്രൈവ് ഉണ്ട് കൂടാതെ എമിറ്റർ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു പോൾ അറ്റത്ത് ഡയോഡിന്റെ ആനോഡ് ആണ് കാഥോഡ് ഔട്ട്പുട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു പ്രവർത്തനം വളരെ ലളിതമാണ് ഈ BJT ന് അടിസ്ഥാന ഡ്രൈവ് നൽകുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ രൂപപ്പെടുകയും ഈ പാതയിൽ നിങ്ങൾക്ക് കറന്റ് ഒഴുകുകയും ചെയ്യുന്നു ഇത് ഇൻഡക്ടറിനെ ചാർജ് ചെയ്യുന്നു ബേസ് ഡ്രൈവ് നീക്കം ചെയ്യുമ്പോൾ ഈ സ്വിച്ച് ഓഫ് ആകുകയും ഇൻഡക്ടറിലെ കറന്റ് ഈ പാതയിലൂടെ പ്രവഹിക്കുകയും ഈ ഡയോഡിനെ മുന്നോട്ട് നയിക്കുകയും ഈ പാതയിൽ ഒഴുകുകയും ചെയ്യുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് ബൂസ്റ്റ് പ്രവർത്തനം നൽകും അതിനാൽ പ്രായോഗികമായി മനസ്സിലാക്കാവുന്ന അർദ്ധചാലക ഉപകരണങ്ങളുള്ള ബൂസ്റ്റ് കൺവെർട്ടർ സർക്യൂട്ട് ഇതാണ് നമ്മൾ ഇവിടെ കണ്ട ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ ഇതാണ് ഇവിടെ വീണ്ടും നമ്മൾ 1 BJT യും 1 ഡയോഡും ഉപയോഗിച്ച് ബക്ക് ബൂസ്റ്റ് സർക്യൂട്ട് സിംഗിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ നിയന്ത്രിത സ്വിച്ചായ 1 BJT ഇവിടെ ബന്ധിപ്പിക്കും ഡയോഡിന്റെ അനിയന്ത്രിതമായ സ്വിച്ച് ഇവിടെ സ്ഥാപിക്കും ഇനി നമുക്ക് ഈ സ്വിച്ച് നീക്കം ചെയ്ത് ഈ പവർ അർദ്ധചാലക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് വീണ്ടും ബന്ധിപ്പിക്കാം വീണ്ടും കണക്ഷൻ നടത്തിയ ശേഷം സർക്യൂട്ട് ഇതുപോലെയാണെന്ന് നിങ്ങൾ കാണുന്നു BJT യുടെ എമിറ്റർ പോൾ പോയിന്റുമായി ഇതുപോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഡയോഡ് ഈ ദിശയിൽ പോൾ പോയിന്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ BJT ഓണായിരിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാന ഡ്രൈവ് നൽകുന്നു Vin BJT ഇൻഡക്റ്റർ എന്നിവയിലൂടെ കറന്റ് ഒഴുകുന്നു ഈ പാതയിലൂടെ ഇൻഡക്ടർ ചാർജ് ചെയ്യുന്നു BJT സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇൻഡക്ടറിലെ കറന്റിന് ദിശ മാറ്റാൻ കഴിയില്ല പകരം അത് കപ്പാസിറ്റർ ലോഡ് ഡയോഡ് പിന്നിലൂടെ ഈ പാതയിൽ ഒഴുകുന്നു അതിനാൽ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ പ്രവർത്തിക്കുന്നതും റിവേഴ്സ് പോളാരിറ്റി ഉപയോഗിച്ച് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതും ഇങ്ങനെയാണ് അതിനാൽ ഈ രീതിയിൽ ബക്ക് ബൂസ്റ്റ് ബക്ക് ബൂസ്റ്റ് എന്നിവ ഇപ്പോൾ പ്രായോഗികമായി തിരിച്ചറിയാവുന്ന പവർ അർദ്ധചാലക സ്വിച്ചുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കപ്പെടുന്നു അവ ഇപ്പോൾ ഹാർഡ്വെയറിൽ അനുകരിക്കാനും നടപ്പിലാക്കാനും കഴിയും ഇതാണ് ബക്ക് D പാരാമീറ്റർ അല്ലെങ്കിൽ ഡ്യൂട്ടി റേഷ്യോ ഉപയോഗിച്ച് നോക്കാം നമുക്ക് ഇപ്പോൾ d പാരാമീറ്റർ നിർവചിക്കാം ഇപ്പോൾ d യെ ഡ്യൂട്ടി റേഷ്യോ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഡ്യൂട്ടി റേഷ്യോ എന്താണ് മൊത്തം സ്വിച്ചിംഗ് കാലയളവിലെ ഓൺ ടൈമിന്റെ അനുപാതമാണിത് അതിനാൽ നമുക്ക് y ആക്സിസും നമ്മുടെ x ആക്സിസും ഉണ്ടെന്ന് പറയാം സ്വിച്ചിംഗ് പിരീഡ് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു അവിടെ സ്വിച്ചിംഗ് പിരീഡ് Ts ആണെന്നും ഈ കാലയളവ് ഓൺ ടൈം Ton ആണെന്നും പറയാം ഡ്യൂട്ടി അനുപാതം d TonTs ന് തുല്യമാണ് ഇത് നിർവചനം പ്രകാരമാണ് അതിനാൽ സ്വിച്ച് മോഡിലോ കൺവെർട്ടറിലോ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അനുപാതമാണിത് ഇപ്പോൾ Ton കാലയളവിൽ അത് ഉയർന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും Toff കാലഘട്ടത്തിൽ അത് താഴ്ന്നതും വീണ്ടും Ton സമയത്ത് ഉയർന്നതുമാണ് ഇപ്പോൾ ഈ തരംഗ ആകൃതി ആയിരിക്കും ബേസ് ഡ്രൈവ് പൾസ് ഇത് ബേസ് ഡ്രൈവ് പൾസ് Vb ആയിരിക്കും ഈ Vb ആണ് ഇവിടെ ഒരു പൾസ് ആകൃതിയുടെ രൂപത്തിൽ നൽകിയിരിക്കുന്നത് ട്രാൻസിസ്റ്ററിനെ ഓണാക്കാനും ഓഫാക്കാനുമുള്ള ഉചിതമായ സർക്യൂട്ട് ഉണ്ടായിരിക്കും അതിനാൽ Vb ഉയർന്നിരിക്കുമ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും Vb കുറവാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഓഫാകും ഇങ്ങനെയാണ് ബക്ക് കൺവെർട്ടർ പ്രവർത്തിക്കുക ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം ലഭിക്കുന്നതിന് നമുക്ക് ഈ d ഉപയോഗിക്കാവുന്നതാണ് ഇത് TonTs ആണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ സമവാക്യത്തിൽ നിന്നുള്ള സമയം Ton ന്റെ ഈ ഭാഗം ഇപ്പോൾ dTs ആണെന്ന് ഓർക്കുക ഇത് TonTs ന് തുല്യമാണ് ഈ സമയത്തിന്റെ ഈ ഭാഗത്തെ നമ്മൾ ഇനി മുതൽ Ts എന്ന് വിളിക്കും അതിനാൽ മൊത്തത്തിലുള്ള dTs 1Ts dTs എന്നത് Ts ആയിരിക്കും d എല്ലായ്പ്പോഴും 1 ൽ താഴെയാണ് 0 മുതൽ 1 വരെ അതിനാൽ ഈ പരാമീറ്റർ d ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ മൂന്ന് കൺവെർട്ടറുകളുടെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധങ്ങൾ എന്താണെന്ന് കണ്ടെത്തും ഇനി ആദ്യം നമുക്ക് ബക്ക് കൺവെർട്ടർ നോക്കാം ഇപ്പോൾ ഞാൻ ഈ ട്രാൻസിസ്റ്ററിനെ Q എന്ന് വിളിക്കാം Q ഓണായിരിക്കുമ്പോൾ Vin ഈ ഘട്ടത്തിൽ ദൃശ്യമാകുന്നു ഇത് Vin ആയിരിക്കും ഇത് Vo ആയിരിക്കും പോൾ വോൾട്ടേജ് Vin Vbo ആയിരിക്കുമെന്നും നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്ക് Vin Vo ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടത് പോലെ Q ഓണായിരിക്കുന്ന Ton കാലയളവിലാണ് ഇത് സംഭവിക്കുന്നത് അതായത് dTs Q ഓഫായിരിക്കുമ്പോൾ ഇൻഡക്ടറിലുടനീളം വോൾട്ടേജ് Vo ആണ് ഇത് ഡയോഡിന്റെ ഫ്രീ വീലിംഗ് പാത കാരണം ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഡയോഡ് ഡ്രോപ്പ് 0 ആണെന്ന് അനുമാനിക്കുമ്പോൾ കാലയളവ് dTs ആണ് ഇപ്പോൾ ഇൻഡക്ടർ ശരിയായി പ്രവർത്തിക്കുന്നതിന് ഇവ രണ്ടും സന്തുലിതമാക്കണം അതിനാൽ നിങ്ങൾക്ക് Vin - VodTs Vo Ts എന്നത് 0 ന് തുല്യമാണ് അടയാളങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ dVod അതിനാൽ Vo d ഇത് പരാമീറ്റർ ഡ്യൂട്ടി അനുപാതത്തിന്റെ കാര്യത്തിൽ വളരെ ഉപയോഗപ്രദമായ ബന്ധമാണ് അടുത്തതായി നമ്മൾ സമാനമായ രീതിയിൽ ഒരു ബൂസ്റ്റ് കൺവെർട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം എടുക്കും ബൂസ്റ്റ് കൺവെർട്ടറിന്റെ സർക്യൂട്ട് നോക്കാം മുമ്പത്തെപ്പോലെ നമ്മൾ BJT യെ Q എന്ന് വിളിക്കും അടിസ്ഥാന ഡ്രൈവ് ഇവിടെ പൾസുകളായി നൽകിയിരിക്കുന്നു Q ഓൺ ആയാൽ dTs എന്നും Q ഓഫ് ആയിരിക്കുമ്പോൾ പിരീഡ് 1 മൈനസ് dTs എന്നും വിളിക്കുന്നു ഇതുപോലെ Q ഇതിലായിരിക്കുമ്പോൾ ഗ്രൌണ്ടുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ P യിലുള്ള പൊട്ടൻഷ്യൽ 0 ആണ് ഇൻഡക്ടറിന്റെ വശത്തുള്ള പൊട്ടൻഷ്യൽ Vin ആണ് അതിനാൽ ഇൻഡക്ടറിലുടനീളം വോൾട്ടേജ് Vin ആണ് അതിനാൽ ഇത് VindTs Q ഓഫായിരിക്കുമ്പോൾ ഡയോഡ് ചാലകം ചെയ്യുന്നു കറന്റ് ഇൻഡക്ടറിൽ നിന്ന് ഔട്ട്പുട്ടിലെ കപ്പാസിറ്റൻസിലേക്ക് കാന്തികമായി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു ഇത് Vo പൊട്ടൻഷ്യലിലാണ് ഡയോഡ് ചാലകം ചെയ്യുന്നു അതിനാൽ Vp Vo പൊട്ടൻഷ്യലിലാണ് ഇത് Vin പൊട്ടൻഷ്യലിലാണ് അതിനാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇൻഡക്ടറിലുടനീളം വോൾട്ടേജ് Ts 0 ആയിരിക്കും Q ഓൺ ആയിരിക്കുമ്പോൾ ഇൻഡക്ടറിലുടനീളം പൊട്ടൻഷ്യൽ Vin ആയിരിക്കും വോൾട്ട് സെക്കൻഡ് ബാലൻസ് ചെയ്യുന്നതിന് ഇൻഡക്ടറിലുടനീളമുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് സൈൻ മാറ്റണമെന്നും ഡയോഡ് ചാലകം ചെയ്യുമ്പോൾ ഈ പൊട്ടൻഷ്യൽ Vo ആയി മാറുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം ചിഹ്നം മാറണമെങ്കിൽ Vo Vin നേക്കാൾ ഉയർന്നതായിരിക്കണം അതിനാൽ സ്വയമേവ വോൾട്ട് സെക്കൻഡ് ബാലൻസ് അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണം സംഭവിക്കുന്നതിന് Vo Vin നേക്കാൾ ഉയർന്നതായിരിക്കണം ഇത് ബൂസ്റ്റ് ഇഫക്റ്റാണ് അതിനാൽ ഇപ്പോൾ ഇവിടെ സമവാക്യത്തിലേക്ക് തിരികെ വരുമ്പോൾ Ts ഉള്ള Vin Vo പുറത്തേക്ക് പോകുന്നതായി ഞങ്ങൾ കാണുന്നു അതിനാൽ ഞാൻ Vo എന്ന് എഴുതുകയാണെങ്കിൽ അത് Vin ആണ് ഇപ്പോൾ ഇവിടെ നോക്കൂ d ൽ 0 ന് തുല്യമാണ് അതായത് Q ഒരിക്കലും ഓണാവില്ല ഇൻഡക്റ്റർ ഒടുവിൽ ഷോർട്ട് ആയി മാറുന്നു Vin നേരിട്ട് ഔട്ട്പുട്ടിലേക്ക് വരുന്നു Vo എന്നത് Vin ന് തുല്യമായിരിക്കും V 0 ആയിരിക്കും d നൂറ് ശതമാനം ഡ്യൂട്ടി സൈക്കിളിനോട് അടുക്കുമ്പോൾ ഈ ഡിനോമിനേറ്റർ വളരെ വലിയ മൂല്യമായി മാറുകയും d 1 നോട് അടുക്കുമ്പോൾ Vo ഉയർന്ന മൂല്യമായി മാറുകയും ചെയ്യുന്നു എന്നാൽ d 1 ആയിരിക്കുമ്പോൾ ട്രാൻസിസ്റ്റർ മാറുന്നില്ലെന്നും അത് തുടർച്ചയായി ഓൺ ആയിരിക്കുമെന്നും ഡയോഡ് ഓഫായിരിക്കുമെന്നും കപ്പാസിറ്ററുകൾ സർക്യൂട്ടിൽ നിന്ന് വേർപെടുത്തുകയും ഒടുവിൽ അത് 0 ആയി ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നും അറിയേണ്ടത് പ്രധാനമാണ് അതിനാൽ നിങ്ങൾ ഒരിക്കലും 1 ന് തുല്യമായ d യിലേക്ക് പോകരുത് എന്നാൽ d 1 ന് അടുത്ത് 1 ലേക്ക് അടുത്തു കൊണ്ടിരിക്കുമ്പോൾ സർക്യൂട്ട് പ്രവർത്തിക്കും കാരണം സർക്യൂട്ട് പ്രവർത്തിക്കുന്നതിന് സ്വിച്ചുകൾ മാറേണ്ടതുണ്ട് എന്നിരുന്നാലും ബൂസ്റ്റ് കൺവെർട്ടറിനുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം ഇതുപോലെയാണ് d 1 ലേക്ക് പോകുമ്പോൾ Vo ഒരു വലിയ മൂല്യത്തിലേക്ക് ഉയരും ഇപ്പോൾ ഇത് ബൂസ്റ്റ് കൺവെർട്ടറിനുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധമാണ് ഇപ്പോൾ ഒരു ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിനുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം നോക്കാം ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിനെ നമ്മൾ വീണ്ടും Q എന്ന് വിളിക്കുന്നു നമ്മൾ ഇവിടെ അടിസ്ഥാന ഡ്രൈവ് പ്രയോഗിക്കുന്നു അതിനാൽ Q ഓണായിരിക്കുമ്പോൾ dTs പിരീഡ് എന്നും Q ഓഫായിരിക്കുമ്പോൾ അതിനെ 1 dTs പിരീഡ് എന്നും വിളിക്കുന്നു അതിനാൽ ഈ കാലയളവിൽ Q ഓൺ ആയിരിക്കുമ്പോൾ ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് ബാറ്ററി വോൾട്ടേജ് അഥവാ ഇൻപുട്ട് വോൾട്ടേജാണ് അതിനാൽ ഇൻഡക്റ്റൻസിൽ ഉടനീളമുള്ള ഇൻപുട്ടിൽ Vin നേരിട്ട് സംഭവിക്കുന്നു ആ സമയത്ത് അത് Vin dTs ആണ് അത് ഓഫ് ആയിരിക്കുമ്പോൾ Q നീക്കം ചെയ്യുകയും ഡയോഡ് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു കാരണം ഇൻഡക്റ്റർ ഈ രീതിയിൽ ഫ്രീ വീലിംഗ് ചെയ്യുന്നു അതിനാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇതേ ദിശയിൽ ഇൻഡക്ടറിലുടനീളം വോൾട്ടേജ് വിലയിരുത്തുക ഡയോഡ് ഇവിടെ ബന്ധിപ്പിക്കുമ്പോൾ ഈ ചിത്രത്തിൽ വരുന്നത് Vo ഇൻഡക്ടറിന് കുറുകെ ആയിരിക്കും ഇത് Vo ആണ് ഇപ്പോൾ ഇത് 0 ന് തുല്യമായിരിക്കണം നിങ്ങൾ ഇത് ലഘൂകരിക്കുമ്പോൾ Vo എന്നത് Vin d എന്നതിന് തുല്യമാണെന്ന് നിങ്ങൾ കാണുന്നു ഇവിടെ മൈനസ് ചിഹ്നം നിരീക്ഷിക്കുക കാരണം അതേ പഴയ തരംഗത്തിൽ വോൾട്ടേജ് അളക്കുന്നതിനുള്ള ദിശ ഞാൻ അനുമാനിച്ചിരിക്കുന്നു ഇതുമായി അപേക്ഷിച്ച് ഇത് പോസിറ്റീവ് ആണ് എന്നാൽ യഥാർത്ഥത്തിൽ കപ്പാസിറ്റർ ഈ രീതിയിൽ പോസിറ്റീവ് ആയി ചാർജുചെയ്യുന്നു കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന വോൾട്ട് സെക്കൻഡ് ബാലൻസ് സമവാക്യം മൈനസ് മൂല്യം ആണ് അതായത് ഇത് പ്ലസ് ആണ് അതിനാൽ ഇതാണ് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം അത് d ൽ 0 ആണ് Vo എന്നത് 0 d ൽ 0 5 അതിനാൽ ന്യൂമറേറ്ററും 0 5 ഡിനോമിനേറ്റർ 0 5 ആണ് Vo എന്നത് Vin തുല്യമാണ് d ൽ 1 ലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ Vo ഡ്യൂട്ടി സൈക്കിളിൽ 0 5 ൽ കൂടുതൽ എന്ന് പറയണം 0 5 നേക്കാൾ വലുത് ഡിനോമിനേറ്റർ സംഖ്യയേക്കാൾ ചെറുതാണ് Vo Vin മാഗ്നിറ്റ്യൂഡിനേക്കാൾ വലുതാണ് ഇത് ബൂസ്റ്റ് ഓപ്പറേഷൻ ആണ് d ൽ 0 5 ൽ കുറവാണെങ്കിൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാൾ കൂടുതലാണ് അതിനാൽ Vo Vin ന്റെ അളവിനേക്കാൾ കുറവാണ് ഇതാണ് ബക്ക് ഓപ്പറേഷൻ അതിനാൽ ഇത് 0 5 ൽ താഴെയുള്ള d യ്ക്ക് ഒരു ബക്ക് കൺവെർട്ടറായി പ്രവർത്തിക്കുമെന്നും 0 5 ൽ കൂടുതലുള്ള d യ്ക്ക് ഒരു ബൂസ്റ്റ് കൺവെർട്ടറായി പ്രവർത്തിക്കുമെന്നും നിങ്ങൾ കാണുന്നു അതുകൊണ്ടാണ് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ എന്ന പേരുള്ളത് ഇതാണ് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറുമായുള്ള ബന്ധം ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം അറിയാം മൂന്ന് പ്രാഥമിക കൺവെർട്ടറുകളുടെ സർക്യൂട്ട് അറിയാം ഈ സർക്യൂട്ട് അനുകരിക്കാനും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാനും തരംഗരൂപങ്ങൾ നോക്കാനും നമ്മൾ ഇപ്പോൾ തയ്യാറാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് gschem gEDA തുറക്കുക gschem ൽ സർക്യൂട്ട് ഇടുക തുടർന്ന് വിവിധ തരംഗരൂപങ്ങൾ അനുകരിക്കാനും കാണാനും ngSpice ഉപയോഗിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത്